നമസ്കാരം തൊട്ടുമുമ്പത്തെ ക്ലാസിലാണ് നാം ബാൻഡ് റിജക്ട് ഫിൽറ്ററിനെക്കുറിച്ച് ചർച്ച ചെയ്തത് ബാൻഡ് റിജക്ട് ഫിൽറ്റർ ഒരു പരീക്ഷണത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നു നമുക്കുനോക്കാം വളരെ വേഗത്തിൽ ഒന്നുകൂടി ഓർമിച്ചാൽ എന്താണ് ബാൻഡ് റിജക്ട് ഫിൽറ്റർ ഒരു പ്രത്യേക ഫ്രീക്വൻസി ബാൻഡിനെ ഒഴിവാക്കാൻ രൂപകല്പന ചെയ്യാവുന്ന ഫിൽറ്ററാണ് ബാൻഡ് റിജക്ട് ഫിൽറ്റർ അത് ഏകദേശം ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ വിപരീതമാണ് ബാൻഡ് പാസ് ഫിൽറ്ററിൽ നമ്മൾ തീരുമാനിച്ച ഫ്രീക്വൻസികൾ കടത്തിവിടുന്നു നേരേ മറിച്ച് ബാൻഡ് റിജക്ട് ഫിൽറ്ററിൽ നമ്മൾ തീരുമാനിക്കുന്ന ഫ്രീക്വൻസികൾ കടത്തിവിടാതെ തടയുന്നു നമുക്ക് എങ്ങനെ ബാൻഡ് റിജക്ട് ഫിൽറ്റർ രൂപകല്പന ചെയ്യാമെന്നാണ് ഇവിടെ നമ്മുടെ പോയിന്റ് അപ്പോൾ എന്താണ് ബാൻഡ് റിജക്ട് ഫിൽറ്റർ അവ ഏതൊക്കെ വിധം ഉണ്ട് എങ്ങനെ രൂപകല്പന ചെയ്യാം എന്നിവയാണ് നമ്മുടെ പഠനവിഷയം ലോ പാസ് ഫിൽറ്റർ ഹൈ പാസ് ഫിൽറ്റർ എന്നിവയാണ് ഇതിനായി നാം ഉപയോഗിക്കുന്നതെന്നു കണ്ടു എന്നാൽ കാസ്കേഡിംഗ് രീതിയിൽ അല്ല എന്നു പ്രത്യേകം ഓർക്കുക ബാൻഡ് പാസിൽ ആദ്യം ഹൈ പാസ് അവസാനം ലോ പാസ് രണ്ടിനുമിടയ്ക്ക് ഓപ് ആംപ് എന്നിങ്ങനെയാണ് നാം കണ്ടത് അത് ബഫർ ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗ് എന്നിവയിൽ ഏതുമാകാം ബാൻഡ് റിജക്ട് ഫിൽറ്ററിലേക്കു വന്നാൽ നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് ലോ പാസിലും ഹൈ പാസിലും ഒരേപോലെയാണ് തുടർന്ന് അതിനെ ഇൻവെർട്ടിംഗ് അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുന്നു അതിനുശേഷം സമ്മർ വരുന്നു ലോ പാസും ഹൈ പാസും ഒരു ബഫറിലേക്ക് പിന്നീട് ബഫർ ഒരു സമ്മിംഗ് ആംപ്ലിഫയറിലേക്ക് എന്നിങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം ഇതാണ് നമ്മൾ കണ്ടത് ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഉപകരണങ്ങളായ ഡിസി പവർ സപ്ലൈ ഫങ്ഷൻ ജനറേറ്റർ ഓസിലോസ്കോപ്പ് എന്നിവ ഉപയോഗിച്ച് എക്സ്പെരിമെന്റിലേക്കു വരാം എങ്ങനെ ഒരു ബാൻഡ് റിജക്ട് ഫിൽറ്റർ രൂപകല്പന ചെയ്യാം എന്താണ് ആക്ടീവ് ബാൻഡ് റിജക്ട് ഫിൽറ്റർ എവിടെയാണ് നാം ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ബ്രെഡ്ബോർഡ് ഒപ്പം ഇന്നു ഞാൻ നിങ്ങൾക്കു പരിചയപ്പെടുത്തുന്നത് എന്റെ മൂന്നാമത്തെ അധ്യാപന സഹായി അനിൽ വിഷ്ണുവിനെയാണ് ഇന്നത്തെ നമ്മുടെ സർക്യൂട്ട് രൂപകല്പന ചെയ്യാനും മനസിലാക്കാനും അദ്ദേഹം നമ്മളെ സഹായിക്കും ഇപ്പോൾ അനിൽ ഇവിടെയുണ്ട് ബ്രെഡ്ബോർഡിൽ സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം നമ്മളെ കാണിക്കും അനിൽ അത് ചെയ്യുന്നതിനിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നു നിങ്ങൾക്കു കൃത്യമായി മനസിലാവാനാണ് ഇത് ഇപ്പോൾ ഒരു നിമിഷം സ്ക്രീനിലേക്കു ശ്രദ്ധിക്കൂ ആക്ടീവ് ബാൻഡ് റിജക്ട് ഫിൽറ്ററിന്റെ പ്രവർത്തനം പഠിക്കുന്ന എക്സ്പെരിമെന്റാണ് നാം കാണുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ള സർക്യൂട്ട് ലോ പാസിലേക്കും ഹൈ പാസിലേക്കും അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ എന്നിവ നിങ്ങൾക്കു കാണാം ഇവിടെ കാണുന്നതുപോലെ ലോ പാസ് ഫിൽറ്ററിന്റെയും ഹൈ പാസ് ഫിൽറ്ററിന്റെയും ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോളോവർ അഥവാ ബഫറിലേക്ക് കണക്ട് ചെയ്യുന്നു ഇതിൽനിന്നുള്ള ഔട്ട്പുട്ട് സമ്മിംഗ് ആംപ്ലിഫയറിലേക്ക് ഫീഡ് ചെയ്യുന്നു ഇതാണ് സമ്മിംഗ് ആംപ്ലിഫയർ വ്യക്തമല്ലേ നോക്കൂ അത് ലോ പാസ് ഹൈ പാസ് ഫിൽറ്ററുകളുടെ കോമ്പിനേഷൻ ആണ് ഇതാണ് സമ്മർ അഥവാ സമ്മിംഗ് ആംപ്ലിഫയർ ഈ സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ് ചിത്രത്തിൽ കാണുന്നതുപോലെ സർക്യൂട്ട് കണക്ട് ചെയ്യുക ഇതാണ് ചിത്രം 19എ ഒപ്പം നമ്മൾ സിമുലേഷനും ചെയ്യുന്നു ആദ്യം നമുക്ക് സർക്യൂട്ട് കാണാം ഇനി നമുക്ക് കംപോണന്റുകളുടെ വാല്യൂ നോക്കാം ആർ1 ആർ2 സി1 സി2 എന്നിവയാണ് നമുക്കുള്ളത് ആർ1 10 കിലോ ഓം ആർ2 1 കിലോ ഓം സി1 സി2 എന്നിവ 0 1 മൈക്രോ ഫാരഡ് വീതം നമ്മൾ കണക്കാക്കുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി ലോ പാസ് ഫിൽറ്ററിന് 159 15 ഹെർട്സ് ഹൈ പാസ് ഫിൽറ്ററിന് 1 59 കിലോ ഹെർട്സ് എന്നിങ്ങനെയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇവിടെ V1ൽ 5 വോൾട്ട് പീക് ടു പീക് സൈൻ വേവ് 50 ഹെർട്സിൽ നൽകുന്നു ഇനി 20 ഹെർട്സ് വീതമുള്ള ഘട്ടങ്ങളായി ഫ്രീക്വൻസി ഉയർത്തണം സാവധാനം 50 ഹെർട്സിൽനിന്ന് 70 ഹെർട്സ് 90 ഹെർട്സ് 110 ഹെർട്സ് എന്നിങ്ങനെ മുന്നോട്ടു പോകുന്നു ഇപ്പോൾ എന്താണ് നാം ശ്രദ്ധിക്കേണ്ടത് സമ്മിംഗ് ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് നോക്കണം ഇതിന്റെയെല്ലാം കോമ്പിനേഷനാണ് നിങ്ങളുടെ ബാൻഡ് റിജക്ട് ഫിൽറ്റർ നിങ്ങൾക്ക് ഇവിടെ ഓപ് ആംപുകൾ ഉണ്ട് അതിനാൽത്തന്നെ ഇതൊരു ആക്ടീവ് ബാൻഡ് റിജക്ട് ഫിൽറ്ററാണ് നമ്മൾ 5 വോൾട്ട് സൈൻ വേവ് നൽകിയശേഷം ഫ്രീക്വൻസി പതിയെ ഉയർത്തുകയാണ് ഔട്ട്പുട്ട് Vo ൽ നിരീക്ഷിക്കുന്നു ഇവിടെ അസ്ത്രചിഹ്നമിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് Vo ൽ ഉള്ള ഔട്ട്പുട്ട് നമ്മളെന്താണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു തുല്യമായിരിക്കെ കട്ട് ഓഫ് ഫ്രീക്വൻസികൾക്കു മുകളിലും താഴെയുമായി ആംപ്ലിറ്റിയൂഡ് ദുർബലമാക്കപ്പെടുന്നു ആംപ്ലിറ്റിയൂഡ് എ ബൈ റൂട്ട് 2 ആണ് fL fH എന്നിവയാണ് കട്ട് ഓഫ് ഫ്രീക്വൻസികൾ fL നു താഴെയും fH നു മുകളിലും ഉള്ള ഫ്രീക്വൻസികൾ കടന്നുപോകാൻ അനുവദിക്കും ഇവയ്ക്ക്കിടയിലുള്ള ഫ്രീക്വൻസികളുടെ ശേഷി കുറയ്ക്കപ്പെടും ഈ ഗ്രാഫിൽ എൻഐ മൾട്ടിസിം ഉപയോഗിച്ചു കിട്ടിയിരിക്കുന്ന റിസൽറ്റുകൾ കാണാം എന്താണ് നാം കാണുന്നത് ഇവിടെ ആംപ്ലിറ്റിയൂഡും ഫ്രീക്വൻസിയും നേർക്കുനേർ വരികയാണ് ഒരു ആക്സിസ് ഫേസ് ആണ് ഇത് ആംപ്ലിറ്റിയൂഡ് പ്ലോട്ടും ഇത് ഫേസ് പ്ലോട്ടുമാണ് അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് Vo എങ്ങനെ മാറുന്നു എന്നുനോക്കാം ഫങ്ഷൻ ജനറേറ്ററിൽനിന്ന് 5 വോൾട്ട്സ് പീക് ടു പീക് ഇൻപുട്ട് വോൾട്ടേജാണ് നാം അപ്ലൈ ചെയ്യുന്നത് ചിത്രം കാണുക ഈ V1 ടെർമിനലിലാണ് ഫങ്ഷൻ ജനറേറ്ററിൽനിന്നുള്ള വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സർക്യൂട്ട് എങ്ങനെയിരിക്കുന്നുവെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമുക്കുനോക്കാം ഇനി നമുക്ക് ബ്രെഡ്ബോർഡിലേക്കു തിരിച്ചുവരാം ഇതാണ് നമ്മുടെ ബാൻഡ് റിജക്ട് ഫിൽറ്റർ മൂന്ന് ഓപ് ആംപുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ സർക്യൂട്ടിൽ മൂന്ന് ഓപ് ആംപുകൾ ഉണ്ടായിരുന്നത് നിങ്ങൾ ഓർക്കുമല്ലോ ആദ്യത്തേത് സമ്മർ ആണ് അടുത്തത് ബഫർ ഇനി ഇൻപുട്ട് ലോ പാസും ഹൈ പാസും ഇൻപുട്ടിൽ നാം അപ്ലൈ ചെയ്യുന്നത് 5 വോൾട്ട് പീക് ടു പീക് സിഗ്നലാണ് ഇതു നമ്മൾ ഫങ്ഷൻ ജനറേറ്ററിൽനിന്നു നൽകും ഇവിടെ നോക്കുക ഈ ഫങ്ഷൻ ജനറേറ്ററിൽ 5 വോൾട്ട് കാണാം ഇപ്പോൾ നമ്മുടെ അധ്യാപന സഹായി ഫ്രീക്വൻസി മാറ്റുകയാണ് അദ്ദേഹം ബ്രെഡ്ബോർഡിൽ ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണ് സിഗ്നൽ ഇൻപുട്ടിലേക്കും മറ്റൊരു ടെർമിനൽ ഗ്രൌണ്ടിലേക്കും നൽകുന്നു ഓപ്പറേഷണൽ ആംപ്ലിഫയറിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് പ്ലസ് മൈനസ് 15 ആണ് ഇനി നമുക്ക് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഓസിലോസ്കോപ്പിലേക്കു കണക്ട് ചെയ്യണം ഈവിധം നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും താരതമ്യം ചെയ്യാം ഓസിലോസ്കോപ്പിൽ വ്യക്തമായി കാണാം ഇൻപുട്ടിന്റെ ഒരു ടെർമിനൽ ഗ്രൌണ്ടും അടുത്തത് Vo ലേക്ക് കണക്ട് ചെയ്തതുമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അല്പം വോൾട്ടേജ് കാണാൻ സാധിക്കേണ്ടതാണ് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഉണ്ടോ ഇല്ലയോ എന്നു നോക്കാം പക്ഷേ സർക്യൂട്ടിൽ എന്തോ ചെറിയ പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ട് ഈ പ്രശ്നം കണ്ടെത്തി പരിഹരിച്ചശേഷം വീഡിയോയിലേക്കു തിരികെ വരാം ഇവിടെ മൂന്ന് ഓപ്പറേഷണൽ ആംപ്ലിഫയറുകൾ ഉണ്ടെന്നു കണ്ടല്ലോ ഒപ്പം ആറു റെസിസ്റ്ററുകളും രണ്ടു കപ്പാസിറ്ററുകളും ഉണ്ട് ബയാസ് വോൾട്ടേജ് ഇൻപുട്ട് സിഗ്നലുകൾ ഔട്ട്പുട്ട് സിഗ്നലുകൾ എന്നിവയുണ്ട് അങ്ങനെ സർക്യൂട്ട് അല്പം കൂടുതൽ സങ്കീർണമാകുന്നു അങ്ങനെവരുമ്പോൾ ഒറ്റ ശ്രമത്തിൽ നമുക്ക് റിസൽറ്റ് കിട്ടണമെന്നു ഉറപ്പു പറയാനാവില്ല നാം ഇപ്പോൾ നേരിട്ടതുപോലുള്ള പ്രശ്നങ്ങൾ വരാം എങ്ങനെയാണ് ഇതിന് പരിഹാരം കണ്ടെത്തുക സർക്യൂട്ടിലെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് നാം ഇപ്പോൾ ചെയ്യേണ്ടത് ഓസിലോസ്കോപ്പിൽ നമുക്ക് സിഗ്നൽ കാണുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരു ടെർമിനൽ യഥാവിധം ഗ്രൌണ്ട് ചെയ്തിരുന്നില്ല എന്നതാണ് നാം ഇപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയത് സമ്മിംഗ് ആംപ്ലിഫയറിന്റെ ടെർമിനലുകളിൽ ഒന്നാണ് ഗ്രൌണ്ട് ചെയ്യാതിരുന്നത് ഈയൊരു ചെറിയ കുഴപ്പംകൊണ്ടാണ് നമുക്ക് നാം നോക്കിക്കൊണ്ടിരുന്ന റിസൽറ്റ് ലഭിക്കാഞ്ഞത് അപ്പോൾ അത് അത്ര ചെറിയ തെറ്റാണെന്നു പറയാനുമാവില്ല അതേസമയം എവിടെയാണ് പ്രശ്നം എന്നു കൃത്യമായി കണ്ടുപിടിക്കുക അത് വേണ്ടവിധം പരിഹരിക്കുക എന്നീ കാര്യങ്ങളാണ് പ്രധാനം അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത് ഇനി നോക്കൂ നമ്മൾ ഇൻപുട്ടിൽ 50 ഹെർട്സിൽ 5 വോൾട്ട് പീക് ടു പീക് നൽകുന്നു എന്താണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത് ബാൻഡ് റിജക്ട് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് നമുക്ക് ഓസിലോസ്കോപ്പിൽ കാണാനാവുക ഇനി കട്ട് ഓഫ് ഫ്രീക്വൻസികൾ നോക്കൂ fL 159 15 ഹെർട്സ് ആണ് ഹയർ ഫ്രീക്വൻസി fL 1 59 കിലോ ഹെർട്സ് ആണ് അപ്പോൾ fL നു താഴെയും fH നു മുകളിലും ഉള്ള ഫ്രീക്വൻസികൾ കടന്നുപോകും ഇതിനു രണ്ടിനും ഇടയ്ക്കുള്ള ഫ്രീക്വൻസികൾ കടത്തിവിടില്ല ബാൻഡ് റിജക്ട് ഫിൽറ്ററിന് ഒരു റോൾ ഓഫ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഉയർത്തിക്കൊണ്ടിരിക്കാം ഇവിടെ നോക്കൂ ഈ മഞ്ഞനിറത്തിൽ കാണുന്നതാണ് നിങ്ങളുടെ ഇൻപുട്ട് സിഗ്നൽ നീല നിറത്തിലുള്ളത് ഔട്ട്പുട്ട് സിഗ്നലാണ് പീക് ടു പീക് വോൾട്ടേജ് 5 2 വോൾട്ട്സ് ആണ് ഫ്രീക്വൻസി സാവധാനം ഉയർത്തുമ്പോൽ എന്തുണ്ടാവുന്നുവെന്നു കാണൂ 150 ഹെർട്സ് ആകുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് പീക് ടു പീക് വോൾട്ടേജ് 5 12 ആണ് ഇപ്പോൾ പെട്ടെന്ന് ആംപ്ലിറ്റിയൂഡ് കുറഞ്ഞുതുടങ്ങുന്നതു കാണാം ഇപ്പോൾ ഫ്രീക്വൻസി 159 022 ഹെർട്സ് ആണ് വീണ്ടും ഉയർത്തുമ്പോൾ ആംപ്ലിറ്റിയൂഡിൽ പെട്ടെന്നു ഡ്രോപ് കാണുന്നു പീക് ടു പീക് ആംപ്ലിറ്റിയൂഡ് പെട്ടെന്നാണ് കുറയുന്നത് ഇടത്തേ മൂലയിൽ നീല നിറത്തിൽ കാണുന്നതാണ് ഇത് 96 വോൾട്ട്സ് അതായത് ആംപ്ലിറ്റിയൂഡ് കുറയുന്നു എന്തുകൊണ്ട് ഇങ്ങനെ 159 9 ഹെർട്സിനു 1 5 കിലോ ഹെർട്സിനും ഇടയിലാണെന്നതു തന്നെ കാരണം ഫ്രീക്വൻസി ഉയരുന്നതിനൊപ്പം ഔട്ട്പുട്ട് ദുർബലമാകുന്നു ഓസിലോസ്കോപ്പിൽനിന്ന് അതു വ്യക്തമായി അറിയാം ഇപ്പോൾ ഏതു ഫ്രീക്വൻസിയിൽ എത്തി എന്നു നോക്കൂ 1 75 1 5 കിലോ ഹെർട്സ് ആണുള്ളത് ഇനിയും ഫ്രീക്വൻസി ഉയർത്തിക്കൊണ്ടിരുന്നാൽ അതായത് fH വരെ ഉയർത്തിയാൽ നമുക്ക് ആംപ്ലിറ്റിയൂഡ് കൂടുന്നതു കാണാം ഞാൻ നൽകുന്ന സിഗ്നൽ ഫിൽറ്റർ കടത്തിവിട്ടുതുടങ്ങി എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നോക്കൂ പീക് ടു പീക് വോൾട്ടേജ് 4 56 4 8 എന്നീ നിലകളിലേക്ക് മടങ്ങിയെത്തുന്നു അതായത് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനോട് ഏതാണ്ട് അടുത്ത് അപ്പോൾ നമ്മളെന്താണ് കണ്ടത് സിഗ്നലുകൾ fL നു താഴെയാണെങ്കിൽ നമുക്ക് കടത്തിവിടാം സിഗ്നലുകൾ fH നു മുകളിൽ ആണെങ്കിലും കടത്തിവിടാം fL നും fH നും ഇടയ്ക്കുള്ള സിഗ്നലുകൾ കടന്നുപോകില്ല അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇനി നമ്മൾ ചെയ്തത് തിരിച്ചു ചെയ്യാം അതായത് ഫ്രീക്വൻസി കുറച്ചുകൊണ്ട് സിഗ്നൽ നിരീക്ഷിക്കാം അപ്പോൾ ഓസിലോസ്കോപ്പ് നോക്കുക ഔട്ട്പുട്ടിലെ പീക് ടു പീക് വോൾട്ടേജ് ആണ് നിങ്ങൾക്കു നോക്കേണ്ടത് ഈ കാണുന്നതാണ് അത് ഫ്രീക്വൻസിയും പീക് ടു പീക് വോൾട്ടേജും നോക്കുക എന്നു ഞാൻ പറയുമ്പോൾ രണ്ടു കാര്യങ്ങൾ പ്രത്യേകം ഓർമിക്കേണ്ടവയുണ്ട് മഞ്ഞനിറത്തിൽ കാണുന്നതാണ് നിങ്ങളുടെ ഇൻപുട്ട് സിഗ്നൽ നീല നിറത്തിലുള്ളതാണ് ഔട്ട്പുട്ട് സിഗ്നൽ ഇപ്പോൾ നാം ഫ്രീക്വൻസി കുറയ്ക്കുന്നു പീക് ടു പീക് വോൾട്ടേജ് ശ്രദ്ധിച്ചുനോക്കുക വോൾട്ടേജും കുറഞ്ഞുതുടങ്ങുന്നതായി നിങ്ങൾക്കു കാണാം ഇപ്പോൾ 115 ഹെർട്സ് 159 ഹെർട്സ് എന്ന നിലയിലേക്ക് എത്തുന്നു ഓട്ടോ അഡ്ജസ്റ്റ് ഫങ്ഷൻ ചെയ്തു നോക്കാമോ അതുവഴി നിങ്ങൾക്ക് വേവ്ഫോം ഓട്ടോമാറ്റിക് ആയി ക്രമീകരിക്കാം 151 ഹെർട്സ് 159 ഹെർട്സ് എന്നിവയ്ക്കു താഴെ എത്തുമ്പോൾ വീണ്ടും അത് കൂടുന്നതു കാണാം നിങ്ങൾ വോൾട്ടേജ് ശ്രദ്ധിച്ചുവോ വോൾട്ടേജും വീണ്ടും കൂടിത്തുടങ്ങി അതായത് പീക് ടു പീക് വോൾട്ടേജ് 159 ഹെർട്സിനും 1 59 കിലോ ഹെർട്സിനും ഇടയിൽ മാത്രമേ കുറയുകയോ അഥവാ ദുർബലമാകുകയോ ചെയ്യുന്നുള്ളൂ ഇനി സ്ക്രീനിലേക്കു തിരികെ വരാം ഇത് 159 ആണെന്ന് കരുതുക ഒപ്പം ഇത് 1 59 കിലോ ഹെർട്സ് ആണെന്നുമിരിക്കട്ടെ ഇനി ഈ സിഗ്നൽ നോക്കൂ വോൾട്ടേജ് ഇവിടെനിന്നാണ് ദുർബലമായിത്തുടങ്ങുന്നത് ഇവിടെ താഴ്ന്നു വരുന്നു നിങ്ങൾ 118ൽ എത്തുമ്പോഴും വോൾട്ടേജ് കുറയുന്നതു കാണാം അത് ഒരിക്കലും 5 വോൾട്ട് ആയി നിൽക്കുന്നില്ല 8 4 5 വോൾട്ട് എന്നിങ്ങനെ കുറഞ്ഞ നിലയിൽ ആണുള്ളത് അപ്പോൾ ഇതാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന കാഴ്ച ഈ ആംപ്ലിറ്റിയൂഡ് ആണ് നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് അതേസമയം നിങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നാലും 1 9 നു മുകളിൽ ആയിരുന്നാലും വോൾട്ടേജ് നിങ്ങളുടെ ഇൻപുട്ട് സിഗ്നലായ 5 വോൾട്ടിനേക്കാൾ കുറഞ്ഞിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഒരു മാറ്റം ദൃശ്യമാകാത്തത് നിങ്ങളുടെ ഫിൽറ്റർ ഐഡിയൽ ആകുമ്പോൾ മാത്രമേ പെട്ടെന്നുള്ള വ്യതിയാനം കാണാനാകൂ ചിത്രം കാണുക ഈ തരം കർവിനു പകരം ഇതായിരിക്കണം ഏതു തരം കർവ് ആണ് ഉണ്ടാവേണ്ടത് ഇപ്പോൾ ഇതാണ് fL ഫ്രീക്വൻസി എന്നും ഇതാണ് fH എന്നും കരുതുക അപ്പോൾ നിങ്ങളുടെ കർവ് ഇതായിരിക്കും നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻസിയേ ഉള്ളൂ എങ്കിൽ കർവ് ഇതുപോലെ കാണപ്പെടും പക്ഷേ നമ്മുടെ വശം ഐഡിയൽ ഫിൽറ്റർ ഇല്ല അതിനാൽത്തന്നെ വോൾട്ടേജിൽ ഉള്ള വ്യതിയാനം അതായത് കൂടലോ കുറയലോ കൃത്യം ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ആവില്ല എന്നാൽ സ്ലൈഡിൽ കണ്ടതിന് ഏതാണ്ടു സമാനമാണ് അത് എന്നാൽ ഇതിൽ ആശയക്കുഴപ്പം വരേണ്ട കാര്യമില്ല അയ്യോ ഇതു പ്രവർത്തിക്കുന്നില്ല എന്നും കരുതേണ്ട ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഒരു പ്രത്യേക ഫ്രീക്വൻസിക്കു ശേഷം നിങ്ങൾക്കു വീണ്ടും 5 വോൾട്ട്സ് കാണാൻ കഴിയും അപ്പോൾ എന്താണ് ബാൻഡ് റിജക്ട് ഫിൽറ്റർ എന്നു നിങ്ങൾക്ക് മനസിലായി എന്താണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്താണ് ഹൈ പാസ് ഫിൽറ്റർ എന്താണ് ലോ പാസ് ഫിൽറ്റർ എന്താണ് ആക്ടീവ് ഫിൽറ്റർ എന്താണ് പാസീവ് ഫിൽറ്റർ എന്നെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം സാധ്യമായ എല്ലാത്തരം ഫിൽറ്ററുകളെക്കുറിച്ചും നാം ചർച്ചചെയ്തു ഈ പ്രത്യേക പാഠഭാഗത്തിലുള്ള എല്ലാം നാം കണ്ടു ലോ പാസ് മുതൽ ഹൈ പാസും ബാൻഡ് പാസും ബാൻഡ് റിജക്ടും വരെയുള്ള ഫിൽറ്ററുകൾ എക്സ്പെരിമെന്റുകളിലൂടെ പഠിച്ചു അടുത്ത മൊഡ്യൂളിൽ നാം ഓപ്പറേഷണൽ ആംപ്ലിഫയറുകളുടെ മറ്റ് ആപ്ലിക്കേഷനുകൾ ആണ് പരിശോധിക്കുക അതുവരെ ഫിൽറ്ററുകളെക്കുറിച്ച് പരമാവധി പഠിക്കുക അവയുടെ പ്രാധാന്യം പ്രയോഗം ആപ്ലിക്കേഷനുകൾ എന്നിവ മനസിലാക്കുക ഏതെല്ലാം വിധത്തിലുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലാണ് ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കുക കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടുകളിലും സിസ്റ്റങ്ങളിലുമാണ് ഫിൽറ്ററുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതെന്ന് ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അടുത്ത മൊഡ്യൂളിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം